ഈ ആഴ്ച്ചയിലെ അവസാനത്തെ ലക്ചറിൽ ഉപകാരപ്രദമായ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു മറ്റെവിടെയെങ്കിലും പ്രത്യേകമായി യോജിക്കാത്തവയാണവ അതുകൊണ്ട് നമ്മൾ അവയിൽ ഒരു ജോഡി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഒരു ഒറ്റ പ്രസന്റേഷനായി തയ്യാറാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ഉപയോക്താവ് ഇൻപുട്ട് നൻകുമ്പോൾ പിശക് സംഭവിച്ചാൽ അത് അയാളെ പ്രിന്റ് ഉപയോഗിച്ച് അറിയിക്കുന്ന ഉദാഹരണം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു സംഖ്യ സ്വീകരിക്കുവാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ആ ഉപയോക്താവ് നൽകിയത് ഒരു സ്ട്രിങ്ങായി നമ്മൾ ഇൻപുട്ട് ചെയ്യും അതായത് ഒരു സംഖ്യ നൽകുക എന്ന സന്ദേശം നമ്മൾ അവർക്ക് നൽകുന്നു അവർ നൽകിയ സ്ട്രിങ്ങിനെ int എന്ന ഫംഗ്ഷനുപയോഗിച്ച് നമ്മൾ പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നു ഉപയോക്താവ് നൽകിയ സ്ട്രിങ്ങ് സാധുവായ പൂർണ്ണസംഖ്യയല്ലെങ്കിൽ ഈ int ഫംഗ്ഷൻ പരാജയപ്പെടും അപ്പോൾ നമുക്ക് ഒരു വാല്യു എറർ ലഭിക്കുകയും വീണ്ടും ശ്രമിക്കുനുള്ള ഒരു സന്ദേശം പ്രദർശിപ്പിച്ച് തിരിച്ചു പോകുകയും ചെയ്യുന്നു അവസാനമായി നമ്മൾ വിജയിക്കുകയാണെങ്കിൽ അതായത് ഈ ട്രൈ ബ്ലോക്ക് വിജയിക്കുകയും int പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ ഈ ട്രൈ ബ്ലോക്കിൽ നിന്ന് പുറത്ത് വരികയും എൽസിലേക്ക് പോകുകയും ചെയ്യുന്നു കൂടാതെ എൽസ് ലൂപ്പുകൾ തകർത്ത് പുറത്ത് പോവുകയും ചെയ്യും അതായത് ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് ഇപ്പോഴത്തെ ചോദ്യം ഇതാണ് നമ്മൾ ഇത് മാറ്റുവാനുദ്ദേശിക്കുന്നെങ്കിൽ എന്ത് കൊണ്ട് നമുക്കിത് ചെയ്യേണ്ടതില്ല മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഒരു ഉപയോക്താവ് നമ്മളെന്ത് കൊണ്ടാണ് "enter a number" എന്ന് മാത്രം പറയുന്നതിന് പകരം ഞാനുദ്ദേശിച്ചത് നമ്മളിത് പല പ്രാവശ്യം കണ്ടതാണ് ഒരു സാധുവല്ലാത്ത വില നൽകിയാൽ നിങ്ങളൊരു യൂസർ ഇന്റർഫേസിലേക്ക് പോകുകയും തെറ്റായ എന്തെങ്കിലും നൽകിയാൽ എന്താണ് തെറ്റ് എന്ന് നിങ്ങളോടത് പറയുന്നില്ല അത് തരികെ പോയിക്കൊണ്ടിരിക്കുകയും വീണ്ടും ടൈപ്പ് ചെയ്യുവാൻ ആവശ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ട് സൌഹൃദമല്ലാത്ത അത് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങിനെ പ്രാഗ്രാം ചെയ്യും നമുക്കെന്താണ് പറയുവാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ വാല്യു എററിൽ എത്തുകയാണെങ്കിൽ ഒന്നും ചെയ്യരുത് പൈത്തണിലുള്ള ഒരു പ്രശ്നമെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കോളൺ എവിടെ ഇടുകയാണെങ്കിലും അതിന് ശേഷം എന്തെങ്കിലും അത് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശൂന്യമായൊരു ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല അതായത് ഞാനൊരു കോളൺ ഇടുകയാണെങ്കിൽ അതിന് ശേഷം ചുരുങ്ങിയത് ഒരു സ്റ്റേറ്റ്മെന്റെങ്കലും ഉണ്ടായിരിക്കുണം പൈത്തണിന്റെ ഒരു സിന്റാറ്റിക് നിയമമാണിത് നിങ്ങൾക്ക് ശൂന്യമായ ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാൽ ഇവിടെ ഞാൻ ഒന്നും ചെയ്യാനുദ്ദേശിക്കുന്നില്ല ഒരു വാല്യു എറർ അവിടെയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നു അതിന് ശേഷം തിരിച്ചു പോകുന്നു എന്നാൽ വേറെ ഒന്നും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പൈത്തണിൽ എങ്ങിനെയാണ് ഞാൻ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് അതിന്റെ ഉത്തരം ഇതാണ് പാസ്സ് എന്ന് പേരുള്ള ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റുണ്ട് സ്പേസുകൾ നിറക്കപ്പെടേണ്ടത് എവിടെയൊക്കെയാണോ അവിടെ മാത്രമാണ് പാസ്സ് എന്ന സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എക്സെപ്റ്റ് അല്ലെങ്കിൽ എൽസ് പോലെയുള്ള ബ്ലോക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ബ്ലോക്കിന്റെ പേര് ഇടുകയാണെങ്കിൽ നിങ്ങൾക്കത് ശൂന്യമായി വിടാൻ സാധിക്കില്ല ഈ അവസരത്തിൽ നിങ്ങൾക്ക് pass എന്ന പദമുപയോഗിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാതിരിക്കാം എനിക്കൊരു ലിസ്റ്റുണ്ട് അതിന്റെ മധ്യത്തിലുള്ള ഒരു ഘടകത്തിനെ നീക്കം ചെയ്യണമെന്ന് കരുതുക അതുകൊണ്ട് ഇത് ചെയ്യുവാനുള്ള ഒരു മാർഗ്ഗമെന്താണെന്ന് വെച്ചാൽ ആ സ്ഥാനം വരെ മുറിച്ച് അതെടുക്കുക കൂടാതെ ആ സ്ഥാനം മുതലുള്ളതും മുറിച്ചെടുക്കുക അതിന് ശേഷം ഉപയോഗിച്ച് അവയെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് എന്നാൽ എനിക്കിത് നേരിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും ഡെൽ എന്ന കമാന്റിന് അത് വഴി മാറുന്നു dell4 എന്ന് ഞാൻ പറഞ്ഞാൽ നിലവിലുള്ള വിലകളുടെ കൂട്ടത്തിൽ നിന്ന് l4 നെ അത് ഫലപ്രദമായി നീക്കം ചെയ്യുന്നു മാത്രമല്ല ഇത് സ്വയമേവ ലിസ്റ്റിനെ സങ്കോചിപ്പിച്ച് അഞ്ചാമത്തെ സ്ഥാനം മുതലുള്ള മുഴുവനും അഞ്ചിനടുത്തേക്ക് മാറ്റുന്നു അതുകൊണ്ട് അവ പ്രവർത്തിക്കുന്നതായി അവകാശപ്പെടുന്ന രീതി ഈ പ്രവൃത്തികളുപയോഗിച്ച് നമുക്ക് പരിശോധിക്കാം നമ്മുടെ ലിസ്റ്റിൽ 0 മുതൽ 9 വരെയുള്ള വിലകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് കരുതുക അടുത്തതായി ഞാൻ dell4 എന്ന് പറയുന്നു l എന്ന ലിസ്റ്റ് 0 1 2 3 5 6 7 8 9 എന്നീ വിലകളായിത്തിരുന്നു കാരണം l4 ലെ വില 4 ആയിരുന്നു സ്ഥാനം ആരംഭിക്കുന്നത് 0 മുതലാണെന്ന് ഓർക്കുക അതുകൊണ്ട് യഥാർത്ഥത്തിൽ നാലാമത്തെ സ്ഥാനത്തുള്ള വിലയാണ് അത് നീക്കം ചെയ്തത് ഡിക്ഷ്ണറികൾക്ക് വേണ്ടിയും ഇത് പ്രവർത്തിക്കുന്നു k എന്ന കീയുമായി ബന്ധപ്പെട്ട വില നിങ്ങൾക്ക് നീക്കം ചെയ്യണമെങ്കിൽ deldk എന്ന് കൊടുക്കാം ഇത് k എന്ന കീയും അതുമായി ബന്ധപ്പെട്ട വിലകളെന്തൊക്കെയാണോ അതൊക്കെയും ഡിക്ഷ്ണറിയിൽ നിന്ന് നിക്കം ചെയ്യും അതുകൊണ്ട് കീയെ അത് നിർവചിക്കാത്ത ഒരു കീ ആയി ഇപ്പോളഅ കണക്കാക്കും പൊതുവായി നമുക്ക് x എന്ന പേര് എടുക്കാം കൂടാതെ del എന്ന് പറയുക x നെ നിർവ്വചിക്കാത്തതായി ഇത് മാറ്റുന്നു ഇത് പോലെ ആവശ്യമില്ലാത്ത കുറച്ച് കോഡ് നിങ്ങളെഴുതുക x 7 അതിന് ശേഷം del എന്ന് പറയുക പിന്നിട് y x 5 എന്ന് നമ്മൾ ചോദിക്കുന്നു ഈ എക്പ്രഷൻ കണക്കുകൂട്ടാൻ സാധിക്കില്ല കാരണം x ന് ഇനിയൊരു വിലയുമില്ല നമ്മൾ മുമ്പ് കണ്ടതുപോലെ x എന്ന പേര് നിർവ്വചിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെയിം എറർ നമുക്ക് ലഭിക്കുകയും നിങ്ങളത് അവസാനിപ്പിക്കുകയും ചെയ്യും ഒരു പേര് നിർവ്വചിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളെങ്ങിനെ പരിശോധിക്കും വളരെ നല്ലത് നിങ്ങൾക്ക് എക്സപ്ഷൻ ഹാൻഡ്ലിംഗ് ഉപയോഗിക്കാം x നിർവ്വചിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് x എന്ന പേരിന് ഒരു വില നൽകണമെന്ന് കരുതുക അങ്ങിനെയാണെങ്കിൽ നമുക്ക് ഇങ്ങിനെ പറയാം try x അതുകൊണ്ട് ഇത് x ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുന്നു പേരുകൾ എന്ത് വേണമെങ്കിലുമാവാമെന്ന് ഓർക്കുക അത് ഫംഗ്ഷനുകൾ ആവാം അതായത് നിങ്ങൾക്ക് x എന്ന് മാത്രമെഴുതാം കാരണം അത് ആർഗ്യുമെന്റുകളില്ലാത്ത ഒരു ഫംഗ്ഷന്റെ പേരിലാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുവാൻ ശ്രമിക്കും അതായത് വെറുതെ x എന്ന് മാത്രമെഴുതിയാൽ അത് തികച്ചും സാധുവാണ് എന്നാൽ x ന് വിലയൊന്നുമില്ലെങ്കിൽ അതൊരു നെയിം എറർ നൽകും അതായത് try x എന്ന് പറയുക നിങ്ങൾ ഒരു നെയിം എറർ കണ്ടെത്തുകയാണെങ്കിൽ അതിന് 5 എന്ന വില നൽകുക അല്ലെങ്കിൽ അതിനെ തൊടാതെ വിടുക x ന് നിലവിലൊരു വിലയുണ്ടെങ്കിൽ ഇത് x നെ ഒന്നും ചെയ്യില്ല x ന് ഒരു വിലയുണ്ടെങ്കിൽ അത് x ന്റെ വിലയെ 5 ആയി പുതുക്കുന്നു സാധാരണ സംഭവിക്കുന്നതെന്താണെന്ന് വെച്ചാൽ ഇതുവരെ എന്തെങ്കിലും നിർവ്വചിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായി വരും അതിനെ നിർവ്വചിക്കാതെ വെറുതെ ഒഴിവാക്കുകയും പിന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ എക്സപ്ഷൻ ഹാൻഡ്ലിംഗ് ഉപയോഗിക്കുക എന്നത് ഒരു നല്ല ആശയമല്ല കാരണം യഥാർത്ഥത്തിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം അതുകൊണ്ട് പൈത്തൺ നൺ None capital N ഉപയോഗിക്കുക എന്ന പേരിൽ ഒരു പ്രത്യേക വില നമുക്ക് നൽകുന്നുണ്ട് ഒന്നുമില്ല ശൂന്യമായ വില അല്ലെങ്കിൽ ഒരു നൾ വില നിർവ്വചിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വിലയാണ് നൺ നമ്മുടെ സ്വന്തം ഡാറ്റാ സ്ട്രക്ച്റുകൾ പിന്നീട് നിർവ്വചിക്കുമ്പോൾ നമുക്കത് വളരെ പ്രയോജനകരമായിരിക്കും എന്നാൽ ഇപ്പോൾ നൺ എന്നത് ഒരു പ്രത്യേക വിലയാണ് എന്ന് ചിന്തിക്കുക ഒരു വില മാത്രമാണ് നണിൽ ഉണ്ടായിരിക്കുക അത് ഒന്നുമില്ല എന്നതിനെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് സാധാരണ ഉപയോഗമെന്താണെന്ന് വെച്ചാൽ ഒരു പേരിന് സാധുവായ വിലയുണ്ടെങ്കിൽ നമുക്കതിന് നൺ എന്ന പ്രാരംഭവില നൽകാം കൂടാതെ പിന്നിട് അത് നൺ തന്നെയാണോ എന്ന് നമുക്ക് പരിശോധിക്കുവാനും സാധിക്കും അതുകൊണ്ട് പ്രാരംഭഘട്ടത്തിൽ നമ്മൾ x None എന്ന് പറയുന്നു അവസാനമായി നമ്മൾ മുമ്പോട്ട് പോവുകയും x നൺ അല്ലെങ്കിൽ y x എന്ന് പറയുകയും ചെയ്യുന്നു മറ്റു വാക്കുകളിൽ x ഇപ്പോഴും നൺ തന്നെയാണെങ്കിൽ y x എക്സിക്യൂട്ട് ചെയ്യില്ല ഇനി ശ്രദ്ധിക്കുവാനുള്ള പ്രത്യേകതയുള്ള പദമാണ് നോട്ട് നമ്മളുപയോഗിക്കുന്നത് നോട്ട് ഈക്വൽ ടു എന്നാണ് പൈത്തണിൽ കൃത്യമായി നൺ എന്ന് പേരുള്ള ഒരു വില മാത്രമാണുള്ളത് എല്ലാ നൺ കളും ഒരേ കാര്യത്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് l1 l2 എന്ന് നമ്മൾ പറയുമ്പോൾ l1 ഉം l2 ഉം ഒരേ ലിസ്റ്റ് ഒബ്ജക്ടിനെയാണോ പോയിന്റ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചോദിച്ചിട്ടുള്ളത് x ഉം സ്ഥിരവിലയായ നൺ ഉം പോയിന്റ് ചെയ്യുന്നത് നൺ എന്ന ഒരേ ഒബ്ജക്ടിനെയാണോ എന്നാണ് മാത്രമല്ല നൺ എന്ന ഒരു വില മാത്രമാണുള്ളത് അതുകൊണ്ട് x None എന്ന് പറയുന്നതും x None എന്ന് പറയുന്നതും തുല്യമാണ് അതുകൊണ്ട് x not None എന്ന് പറയുന്നതും x not None എന്ന് പറയുന്നതും തുല്യമാണ് അതായത് x not None എന്ന് വായിക്കുന്നത് x not None എന്ന് വായിക്കുന്നതിനേക്കാൾ വളരെയേറെ എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എഴുതിയത് നമ്മൾ മനസ്സിലാക്കിയ ഉപകാരപ്രദമായ മൂന്ന് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാലാകാലങ്ങളിൽ ഉപയോഗിക്കും ഒന്നാമത്തേത് പാസ്സ് എന്ന പ്രത്യേക സ്റ്റേറ്റ്മെന്റാണ് അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല നിങ്ങൾക്ക് ശൂന്യമായ ഒരു ബ്ലോക്ക് ആവശ്യമുള്ളപ്പോൾ അതുപയോഗിക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ കണ്ടത് ഡെൽ എന്ന കമാന്റാണ് അത് ഒരു വിലയെടുക്കുകയും അതിനെ നിർവ്വചിക്കപ്പെടാത്തതാക്കി മാറ്റുകയും ചെയ്യുന്നു ഏറ്റവും സാധാരണയായി ഡെൽ ഉപയോഗിക്കുന്നത് ഒരു ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡിക്ഷ്ണറിയിൽ നിന്ന് എന്തെങ്കിലും നീക്കം ചെയ്യുവാനാണ് സാധാരണയായി ഒരു ലളിതമായ വിലയുള്ള പേരിനെ നിങ്ങൾ നിർവ്വചിക്കപ്പെടാത്തതായി മാറ്റേണ്ടതില്ല എന്നാൽ ഒരു ഡിക്ഷ്ണറിയിൽ നിന്നോ ലിസ്റ്റിൽ നിന്നോ നിങ്ങൾക്ക് ഒരു കീ നീക്കം ചെയ്യേണ്ടതായി വന്നേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനമാണ് നീക്കം ചെയ്യേണ്ടതെങ്കിൽ അതിന് ഡെൽ വളരെ ഉപകാരപ്രദമായിരിക്കും അവസാനമായി നമ്മൾ കണ്ടത് നൾ വിലയെ സൂചിപ്പിക്കുന്ന നൺ എന്ന പ്രത്യേക വിലയെയാണ് അതൊരു അപൂർവ്വമായ നൾ വിലയാണ് കോഡിൽ പിന്നീട് പര്യാപ്തമായ വിലകൾ നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി ചരങ്ങൾക്ക് പ്രാരംഭവിലകൾ നൽകുവാൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്